ഇനി നാം പി മോസ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് കോമൺ സോഴ്സ് ആംപ്ലിഫയർ നിർമ്മിക്കാൻ ശ്രമിക്കാം വിവരണത്തിനായി ഞാൻ പി മോസ് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാം ഇതിൻറെ µpcox പ്രോഡക്റ്റ് 25 µAV2 ആണ് WL4 ആയി തെരഞ്ഞെടുക്കാം ഇത് ചെയ്യുന്നത് എന്തെന്നാൽ µpcoxWL 100 µAV2 ആകുന്നു എൻ മോസ് ട്രാൻസിസ്റ്ററിനു തുല്യം ഇത് വളരെ സൌകര്യമാണ് നാം മുൻപേ കണ്ടുപിടിച്ച ഫലങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും എൻ മോസ് ട്രാൻസിസ്റ്റർ പോലെ പി മോസ് ട്രാൻസിസ്റ്ററിൻറെ ത്രഷോൾഡ് വോൾട്ടേജ് 1 V ആണെന്ന് കരുതുക പക്ഷേ µpcox µncox എന്നിവ വ്യത്യസ്തമാണെന്ന് ഓർമ്മിക്കുക കൂടാതെ ഇത് കൃത്യമായ 1 4 അനുപാതത്തിൽ ആയിരിക്കില്ല നിങ്ങൾ ഒരു ഇൻറഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു വേരിയബിൾ ആണ് WL 1 പോലെ വളരെ ചെറുതും ആകാം അല്ലെങ്കിൽ 1000 10000 പോലെയും ആകാം പക്ഷേ ഈ പാരാമീറ്റർസ് നാം എസ്റ്റിമെഷന് ഉപയോഗിക്കുന്നു തീർച്ചയായും WL ൻറെ മറ്റേത് വാല്യുവിനും പാരാമീറ്റർസ് എളുപ്പത്തിൽ കണക്കാക്കാൻ സാധിക്കും എനിക്ക് ആവശ്യമുള്ള gm 200 µS ആണെന്ന് ഞാൻ ഊഹിക്കുന്നു Kn 100 µAV2 VTP 1 വോൾട്ട് ആയി എടുത്തു കണക്കുകൂട്ടിയാൽ സാച്ചുറേഷൻ റീജിയണിൽ നിലനിൽക്കാൻ സോഴ്സ് ഗേറ്റ് വോൾട്ടേജ് 3 വോൾട്ട് ആയിരിക്കണമെന്നും VSD ≥ 2 V ആയിരിക്കണമെന്നും കാണാൻ സാധിക്കും എൻ മോസ് പോലെ ഇനി വോൾട്ടേജസ് മറ്റു രീതിയിൽ നിർവ്വചിക്കപ്പെടുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകരുത് എൻ മോസ് പോലെ തന്നെ ഇവിടെയുള്ള വോൾട്ടേജ് വ്യത്യാസം വളരെ കുറവാണെങ്കിൽ ഇത് ട്രയോഡ് റീജിയനിലേക്ക് പോയേക്കാം വ്യത്യാസം വലുതാണെങ്കിൽ ഇത് സാച്ചുറേഷൻ റീജിയനിൽ ആയിരിക്കും എൻ മോസിൻറെ കാര്യത്തിൽ കൃത്യമായ വാല്യൂസ് കണക്കാക്കാൻ സാധിക്കും ഡ്രയിൻ വോൾട്ടേജ് ഗേറ്റ് വോൾട്ടേജിനേക്കാൾ താഴെയായിരിക്കാൻ സാധിക്കും പക്ഷേ 1 വോൾട്ട് ത്രഷോൾഡ് വോൾട്ടേജിനേക്കാൾ കുറവാകാൻ സാധിക്കില്ല പി മോസിൻറെ കാര്യത്തിൽ ഡ്രയിൻ വോൾട്ടേജ് ഗേറ്റ് വോൾട്ടേജിനേക്കാൾ മുകളിൽ ആകാൻ സാധിക്കും പക്ഷേ 1 വോൾട്ട് ത്രഷോൾഡ് വോൾട്ടേജിനേക്കാൾ കൂടുതലാകാൻ സാധിക്കില്ല അതാണ് സാച്ചുറേഷൻ കണ്ടീഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആദ്യത്തെ പടി എൻ മോസ് ട്രാൻസിസ്റ്ററിലേതുപോലെ ബയാസ് ചെയ്യുക എന്നതാണ് വിവരണത്തിനായി നാം കോൺസ്റ്റൻറ് VGS0 ബയാസിംഗ് ആണ് ഉപയോഗിക്കുന്നത് VSG0 3 വോൾട്ട്സ് ആണ് നമുക്ക് ആവശ്യം അതിനാൽ ഞാൻ ഇവിടെ 3 വോൾട്ട്സ് ഉപയോഗിക്കുന്നു VSD0 ഒരു വാല്യൂ കൂടി ആവശ്യമുണ്ട് ഇത് 4 വോൾട്ട്സ് ആയി എടുക്കാം ഇത് സാച്ചുറേഷൻ റീജിയണിൽ ട്രാൻസിസ്റ്ററിൻറെ ഓപ്പറേറ്റിംഗ് പോയിൻറ് സ്ഥാപിക്കും VSD0 4 V VSG0 3 വോൾട്ട്സ് വ്യക്തമായും VSD0 എന്നത് VSG0 VT എന്നതിനേക്കാൾ കൂടുതലാണ് ഇങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പോയിൻറ് സ്ഥാപിക്കുന്നത് കോമൺ സോഴ്സ് ആംപ്ലിഫയറിൻറെ സ്മാൾ സിഗ്നൽ പിക്ചർ ഇങ്ങനെയാണെന്ന് കരുതുക ഇവിടെ ഇൻപുട്ട് സോഴ്സ് vi ഉണ്ട് ആദ്യം വിവരണത്തിനായി സോഴ്സ് റസിസ്റ്റൻസ് RS ഇല്ല എന്നു കരുതുന്നു അതിനാൽ vi എന്നത് മോസ് ട്രാൻസിസ്റ്ററിൽ vGS ആയി പ്രയോഗിക്കുന്നു ഇവിടെ കണ്ട്രോൾ സോഴ്സ് gm vGS ലോഡ് റെസിസ്റ്റർ RL എന്നിവയുണ്ട് മുൻപത്തെ പോലെ നമ്മുടെ അനുഭവത്തിൽ നിന്നും ബയാസിംഗിന് വേണ്ടി ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കാം എന്ന് നമുക്കറിയാം ഇവിടെയും ബയാസിംഗിന് വേണ്ടി അധികമായി ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകാം അതിനാൽ ഇവിടെ ചോദ്യം സിഗ്നൽ പിക്ചർ ഓപ്പറേറ്റിങ് പോയിൻറ് പിക്ചറുമായി എങ്ങനെ കൂട്ടിച്ചേർക്കാം എന്നാണ് ഇത് നാം മുൻപും കണ്ടിട്ടുണ്ട് അതിനാൽ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നു പക്ഷേ എൻ മോസ് കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ ഉപയോഗിച്ച ലോജിക് നിങ്ങൾക്ക് ഇവിടെയും പ്രയോഗിക്കാൻ സാധിക്കണം ഞാൻ RD കൂടി കാണിക്കാം ഇത് നമ്മൾ എന്തായാലും ഉപയോഗിക്കാൻ പോകുന്നതാണ് ഇത് gm vGS ഇത് vGS ആണ് RD ആണ് ഡ്രയിൻ സൈഡിൽ ബയാസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് ഓർമിക്കുക RL ആണ് ലോഡ് കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ എസി കപ്പിൾ ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം നാം നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ് നാം ഇത് ഉപയോഗിക്കാൻ പോകുന്നു ആദ്യം ഞാൻ ഇത് കാണിക്കാം VSG0 3 വോൾട്ട്സ് പി മോസ് ട്രാൻസിസ്റ്റർ ഡ്രയിൻ സൈഡിലെ ബയാസിന് RD കൂടി ഉണ്ടാകും ഇത് 100 KΩ ആണെന്ന് ഞാൻ കരുതുന്നു ഇതുമായി സപ്ലൈ വോൾട്ടേജ് ബന്ധിപ്പിക്കണം ഇതിനെ VDD എന്ന് തന്നെ വിളിക്കാം നമുക്ക് VSG0 3 വോൾട്ട്സ് ആണെന്നറിയാം മോസ് ട്രാൻസിസ്റ്ററിൻറെ ഡ്രെയിൻ കറൻറ് 200 µA ആയിരിക്കും ഇത് 20 വോൾട്ട്സ് ആയിരിക്കും മോസ് ട്രാൻസിസ്റ്ററിനു കുറുകെ 4 വോൾട്ട്സ് ആവശ്യമായിരുന്നു അതിനാൽ ഈ VDD ഇപ്പോൾ 24 വോൾട്ട്സ് ആയിരിക്കും മുൻപത്തെ പോലെ രണ്ട് വ്യത്യസ്ത ഡി സി സോഴ്സസ് ഉപയോഗിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്തു ചെയ്യണം എന്ന് നമുക്കറിയാം ഇതും ഒരു കൂടിയ സോഴ്സ് VDD യിൽ നിന്നും വോൾട്ടേജ് ഡിവൈഡർ ഉപയോഗിച്ച് ഉല്പാദിപ്പിച്ചതാണ് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം സപ്ലൈക്ക് കുറുകെ വോൾട്ടേജ് ഡിവൈഡർ ഉപയോഗിക്കുന്നു ഇത് സോഴ്സ് ഗേറ്റ് വോൾട്ടേജ് ബയാസ് നൽകും ഇതാണ് VSG0 ഇതിനെ R2 എന്നും R1 എന്നും വിളിക്കാം എങ്കിൽ വോൾട്ടേജ് V SG എന്നത് VDD R2 R1 R2 ആയിരിക്കും കാരണം ഈ VSG0 R2 വിനു കുറുകെ ആണ് R2 R1 R2 എന്നതിൻറെ റേഷ്യോ ഉചിതമായ വാല്യൂവിന് ക്രമീകരിക്കാൻ സാധിക്കും അതിനാൽ നമുക്ക് 3 വോൾട്ട്സ് ലഭിക്കും ഇത് വളരെ എളുപ്പമാണ് ഉദാഹരണത്തിന് R1 21 MΩ എന്നും R2 3 MΩ എന്നും എടുക്കുക ഇതിന് കുറുകെ 3 വോൾട്ട്സ് എന്ന് ലഭിക്കും ഇവിടെ ഓപ്പറേറ്റിംഗ് പോയൻറ് സ്ഥിരം ആയതാണ് ഇവിടെ സോഴ്സ് ഡ്രയിൻ വോൾട്ടേജ് 4 വോൾട്ട്സ് സോഴ്സ് ഗേറ്റ് വോൾട്ടേജ് 3 വോൾട്ട്സ് ആണ് ഉള്ളത് ഇതിൻറെ കൂടെ ഇൻപുട്ട് വോൾട്ടേജ് ലോഡ് റെസിസ്റ്റൻസ് എന്നിവ കൂടി ചേർക്കണം എങ്ങനെയാണ് ഇൻപുട്ട് ഇവിടെ ചേർക്കുക ഇത് സാധാരണ എസി കപ്ലിങ് ആണ് ഇവിടെ vi ഉണ്ട് ഇത് കപ്പിൾ ചെയ്യാൻ കപ്പാസിറ്റർ C1 ബന്ധിപ്പിക്കുക C1 ആവശ്യത്തിന് വലുതായി തെരഞ്ഞെടുത്താൽ ഈ പോയിൻറിൽ ക്വിസൻറ് ഗേറ്റ് വോൾട്ടേജ് പ്ലസ് ഇൻപുട്ട് വോൾട്ടേജ് ലഭിക്കും ഇൻപുട്ട് വോൾട്ടേജ് അതിനോട് ചേർക്കപ്പെടും ഇതുപോലെ ലോഡ് റെസിസ്റ്റൻസ് RL ഗ്രൌണ്ട് റഫറൻസ് ആയിരിക്കണം അതായത് അങ്ങനെയൊരു ടെർമിനൽ ഡ്രയിനിന് എസി കപ്പിൾ ആയിരിക്കണം ഇതാണ് C2 ഇതുവരെ സപ്ലൈ വോൾട്ടേജിൻറെ ഗ്രൌണ്ട് കാണിച്ചിട്ടില്ല എൻ മോസ് ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻറെ കാര്യത്തിൽ ഓപ്പറേറ്റിംഗ് പോയിൻറ് പിക്ചറിലും നാം മോസ് ട്രാൻസിസ്റ്ററിൻറെ സോഴ്സ് ഗ്രൌണ്ട് ചെയ്തിരിക്കുകയാണ് അതിനാൽ ഇത് ഗ്രൌണ്ട് ആയിരുന്നു ഈ പോയിൻറ് 24 വോൾട്ട്സ് ആയിരിക്കും നെഗറ്റീവ് സപ്ലൈ വോൾട്ടേജ് കൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി സർക്യൂട്ട്സ് ഉണ്ട് പക്ഷേ ഇൻറഗ്രേറ്റഡ് സർക്യൂട്ട്സിൻറെയും പൊതുവേ മോസ് സർക്യൂട്ട്സിൻറെയും കാര്യത്തിൽ വോൾട്ടേജ് സപ്ലൈയുടെ നെഗറ്റീവ് ഭാഗം ഗ്രൌണ്ട് ആയി ഉപയോഗിക്കുന്നത് സാധാരണമാണ് അങ്ങനെ സർക്യൂട്ട് പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജ് കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കാൻ സാധിക്കും ഇത് ഒരു നിയമം അല്ല പക്ഷേ വളരെ സാധാരണമാണ് അതിനാൽ സിംഗിൾ സപ്ലൈ ഉണ്ടാകുമ്പോൾ ഏറ്റവും താഴെയുള്ള റെയിൽ ഗ്രൌണ്ട് ആയും മുകളിലത്തെ റെയിൽ സപ്ലൈ വോൾട്ടേജ് ആയും കരുതുക ചിലതൊക്കെ ഇതിൽ നിന്നും ഒഴിവാക്കാം നെഗറ്റീവ് വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ചില സർക്യൂട്ട്സ് ഉണ്ട് പക്ഷേ മിക്കവാറും സമയങ്ങളിൽ നാം ചെയ്യുന്നത് ഇതാണ് ഇതിനെ ഗ്രൌണ്ടിന് താഴെ ഭാഗം എന്ന് തന്നെയാണ് വിളിക്കുന്നത് മുകളിലത്തെ റെയിൽ 24 വോൾട്ടിൽ തന്നെയായിരിക്കും ഇൻക്രിമെൻറൽ പിക്ചർ സംബന്ധിച്ചെടുത്തോളം ഇതു രണ്ടും ഗ്രൌണ്ടിലാണ് RL സർക്യൂട്ടിൻറെ കോമൺ റഫറൻസ് നോഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതു ഈ ഭാഗത്തുള്ള ഗ്രൌണ്ടാണ് ഇതാണ് മുഴുവനായുള്ള പി മോസ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ vi ഗേറ്റ് പോയന്റുമായി എ സി കപ്പിൾ ചെയ്തിരിക്കുന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടത്തെ വോൾട്ടേജ് സോഴ്സ് ഗേറ്റ് വോൾട്ടേജ് അല്ല എന്നുള്ളത് മാത്രമാണ് ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് അതല്ലാതെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സ്മാൾ സിഗ്നൽ പിക്ചർ പോലെ തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ ഭാഗമാണ് ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നത് എൻ മോസിൻറെ കാര്യത്തിൽ മോസ് ട്രാൻസിസ്റ്ററിൻറെ സോഴ്സ് ആയിരുന്നു കോമൺ റഫറൻസ് നോഡ് ഇവിടെ കോമൺ റഫറൻസ് നോഡ് ഡ്രെയിൻ ഭാഗത്തേക്കാണ് കാരണം നാം പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജിൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇതാണ് റഫറൻസ് നോഡ് അല്ലെങ്കിൽ ഗ്രൌണ്ട് ഇനി ഇതിൻറെ ഇൻക്രിമെൻറൽ പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇതിന് vi ഉണ്ടാകും ഞാൻ C1 കൂടി കാണിക്കുന്നു ഇത് ലളിതമാക്കാൻ വേണ്ടി സോഴ്സ് vi യുടെ ഇൻറർണൽ റസിസ്റ്റൻസ് ഞാൻ കാണിച്ചിട്ടില്ല പക്ഷേ ഇതു കൂടി ചേർക്കാൻ സാധിക്കും ഇത് ഉൾപ്പെടുത്താൻ അധികം ബുദ്ധിമുട്ടില്ല അതിനാൽ ഇവിടെ Rs ഉണ്ടാകും മോസ് ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചടത്തോളം ഒന്നും മാറിയിട്ടില്ല ഈ പോയിൻറ് ഗേറ്റ് ആണ് ഗേറ്റിൽ നിന്നും ഗ്രൌണ്ടിലേക്ക് R1 ║ R2 ഉണ്ട് കാരണം R1 അവിടെയാണ് R2 ഇവിടെയാണ് അടുത്ത പോയിൻറ് കൂടി ഇൻക്രിമെൻറൽ ഗ്രൌണ്ട് ആണ് ഇത് R പാരലൽ R2 ആണ് അതിനുശേഷം gm vGS ആണുള്ളത് പി മോസിൻറെ സ്മാൾ സിഗ്നൽ മോഡൽ എൻ മോസിൻറെതിന് സമാനമാണെന്ന് ഓർക്കുക ഇത് vGS ൻറെ ടേംസിൽ എഴുതുമ്പോൾ ഇവിടെ ഡ്രയിനിൽ നിന്നും ഗ്രൌണ്ടിലേക്ക് RD ഉണ്ട് ഇവിടെ C2 RL എന്നിവ ഉണ്ട് ഇതാണ് പി മോസ് ട്രാൻസിസ്റ്ററിൻറെ ഇൻക്രിമെൻറൽ പിക്ചർ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ ഇത് എൻ മോസ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ പോലെ തന്നെയാണ് കൂടാതെ പി മോസ് ട്രാൻസിസ്റ്ററിൽ ഒരു നോൺ സീറോ ലാംഡ ഉണ്ടെങ്കിൽ ഇതിന് നോൺ സീറോ ഔട്ട്പുട്ട് കണ്ടക്ടൻസ് ഉണ്ടാകും സാധാരണപോലെ ഇത് RD RL എന്നിവയ്ക്ക് പാരലൽ ആയിട്ടാണ് ഉണ്ടാവുക എന്നാൽ സ്മാൾ സിഗ്നൽ പിക്ചറിനെ അല്ലെങ്കിൽ ഇൻക്രിമെൻറൽ പിക്ചറിനെ സംബന്ധിച്ചെടുത്തോളം പി മോസ് എൻ മോസ് എന്നിവയ്ക്കിടയിൽ എല്ലാം ഒരുപോലെയാണ് ഓപ്പറേറ്റിംഗ് പോയിൻറ് മറ്റു ചില ലാർജ് സിഗ്നൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നിവ വ്യത്യസ്തമായിരിക്കും അവ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ഇനി C1 C2 എന്നിവ ഷോർട്ട് ആയിരിക്കണം ഇത് നാം പലതവണ ചെയ്തിട്ടുണ്ട് അതിനാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം C1 ഷോർട്ട് ആകുവാൻ ഇതിന് കുറുകെയുള്ള റെസിസ്റ്റൻസിനേക്കാൾ റിയാക്ടൻസ് വളരെ ചെറുതായിരിക്കണം സോഴ്സ് പൂജ്യമായി മാറുമ്പോൾ ഇവിടെ R s ഈ റെസിസ്റ്റൻസ് എന്നിവയുണ്ട് അതിനാൽ കപ്പാസിറ്റർ C1 ൻറെ റിയാക്ടൻസ് 1 ω C1 ≤ Rs R1 ║ R2 ആയിരിക്കണം അല്ലെങ്കിൽ ഇതിനർത്ഥം C1 ≥ 1 ω Rs R1 ║ R2 എന്നാണ് ഔട്ട്പുട്ട് ഭാഗത്തും ഇതേ കാര്യമാണ് നിലനിൽക്കുന്നത് പതിവുപോലെ ഈ gds ഞാൻ അവഗണിക്കുന്നു പക്ഷേ ഇത് ഉണ്ടെങ്കിൽ ഇത് RD യുമായി പാരലൽ ആയിരിക്കും കപ്പാസിറ്റർ C2 ൻറെ റിയാക്ടൻസ് RD RL റെസിസ്റ്റൻസിനേക്കാൾ വളരെ ചെറുതായിരിക്കണം അതിനാൽ 1 ω C2 ≤ RD RL അല്ലെങ്കിൽ C2 ≥ 1 ω RD RL ആയിരിക്കും പക്ഷേ നാം മുൻപും ചർച്ചചെയ്തിരുന്നു C2 ഉണ്ടെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ഒന്നുതന്നെയാണെന്ന് ഈ കണ്ടീഷൻ ഉറപ്പുവരുത്തും ഈ കൺസ്ട്രയിൻറ്സ് ഇക്കാര്യം ശ്രദ്ധിക്കും ചിലപ്പോൾ നമുക്ക് അധികം ആയിട്ടുള്ള ഒരു കൺസ്ട്രയിൻറ് ആവശ്യമുണ്ട് RD യുടെ വാല്യൂ വളരെ അധികം ആണെങ്കിൽ ഈ വോൾട്ടേജും ആ വോൾട്ടേജും ഒന്നുതന്നെ ആയിരിക്കണം സ്വിങ് ലിമിറ്റ്സിൻറെ ചർച്ചയിൽ നിന്നും സ്വിങ് ലിമിറ്റ് ചെയ്യുന്നത് ഡ്രയിനിലെ വോൾട്ടേജ് ആണ് അല്ലാതെ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ല എന്ന് നിങ്ങൾക്കറിയാം RD വളരെ വലുതാണെങ്കിൽ ഇവിടത്തെ വോൾട്ടേജ് സ്വിങ് ഔട്ട്പുട്ട് വോൾട്ടേജിനേക്കാൾ വലുതായിട്ട് ഉള്ള ഒരു സന്ദർഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനർത്ഥം ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിലേക്ക് പോകുന്നത് നാം വിചാരിച്ചതിലും ചെറിയ ഔട്ട്പുട്ട് വോൾട്ടേജിൽ ആയിരിക്കും അതിനാലാണ് ഡ്രയിൻ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിന് തുല്യമായി ഇരിക്കേണ്ടത് അതിനുള്ള കണ്ടീഷൻ ഇതാണ് 1 ω C2 ≤ അല്ലെങ്കിൽ C2 ≥ 1 ω ഒരിക്കൽ ഈ കണ്ടീഷൻസ് തൃപ്തികരമായാൽ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് പോലെ പെരുമാറുന്നു ഇതാണ് ഈ ചിത്രത്തിലുള്ളത് Vo vi എന്നത് gm RD ║RL R1 ║R2 Rs R1 ║ R2 ആണെന്ന് നമുക്ക് എളുപ്പത്തിൽ കാണാൻ സാധിക്കും R1 ║ R2 Rs എന്ന് തെരഞ്ഞെടുത്താൽ ഇത് മുഴുവനും gm RD ║RL എന്നായി ചെറുതാകുന്നു അതിനാൽ സ്മാൾ സിഗ്നൽ പിക്ചർ പ്രകാരം ഒന്നും വ്യത്യസ്തമല്ല ഇത് എൻ മോസ് കോമൺ സോഴ്സ് ആംപ്ലിഫയറിന് തുല്യമാണ് ഇനി എൻ മോസ് പി മോസ് എന്നിവയ്ക്കിടയിൽ യഥാർത്ഥത്തിൽ എന്താണ് വ്യത്യാസം എന്ന് അടുത്ത അധ്യായങ്ങളിൽ പഠിക്കുന്നതാണ്